കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐസൻസ്റ്റൈൻ മാനദണ്ഡം പരിഗണിച്ചു ഇത് ഒരു ഇൻറിജർ പോളിനോമിയൽ അല്ലെങ്കിൽ റാഷണൽ പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ആയി കണക്കാക്കാനാവുമോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമാണ് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചും കണ്ടുനമ്മൾ ചില പ്രോബ്ലെംസ് ചെയ്തു ഇത് എല്ലായ്പ്പോഴും ബാധകമല്ല പക്ഷേ ഇത് ബാധകമാകുമ്പോൾ ഇറെഡ്യൂസിബിൾ ആണോ എന്ന് നിർണ്ണയിക്കാനുള്ള വളരെ എളുപ്പമാർഗ്ഗമാണിത് ഈ കോഴ്സിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ച റിംഗ് തിയറിയുടെ വിഷയം അത് പൂർത്തിയാക്കുന്നു അടുത്ത വിഷയമായ ഫീൽഡിലേക്ക് പോകുന്നതിനുമുമ്പ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയ നിരവധി വിഷയങ്ങളിൽ പൊതുവായി റിങ്ങുകളിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ചെയ്യട്ടെ ഇന്നത്തെ വീഡിയോയിൽ ചില പ്രോബ്ലെം ഞാൻ പരിഹരിക്കട്ടെ ഇവയിൽ ചിലത് മുമ്പത്തെ ചില വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചിരിക്കാം പക്ഷേ ഇത് വീണ്ടും ചെയ്യാൻ അനുവദിക്കുക R ഒരു റിങ് ആകട്ടെ ഇത് ശരിക്കും ഒരു പ്രോബ്ലം മാത്രമല്ലെന്ന് നമുക്ക് അറിയാം എന്നാൽ ഞാൻ നിർവചിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ചില ഉദാഹരണങ്ങൾ നോക്കാം ഇസഡ് മുതൽ ആർ വരെ വളരെ പ്രധാനപ്പെട്ട യൂണീക് റിംഗ് ഹോമോമോർഫിസം ഫൈ ഉണ്ട് ഓർമ്മിക്കുക ഇസഡ് എല്ലായ്പ്പോഴും ഇന്റീജറുകളുടെ റിങ്ങിനെ പ്രതിനിധീകരിക്കുന്നു ഒരു യൂണീക് റിംഗ് ഹോമോമോർഫിസം ഉണ്ട് ഫൈ ഓഫ് 1 1 ആയിരിക്കണമെന്ന് ഓർമ്മിക്കുക നമുക്ക് നിർവചനം അനുസരിച്ച് റിംഗ് ഹോമോമോർഫിസം യൂണിറ്റ് മൾട്ടിപ്ലിക്കേറ്റിവ് ഐഡന്റിറ്റിയെ മൾട്ടിപ്ലിക്കേറ്റിവ് ഐഡന്റിറ്റിയിലേക്ക് മാറ്റുന്നു ഒരിക്കൽ നിങ്ങൾ നിർബന്ധിച്ചാൽ കൃത്യമായി ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ട് കാരണം 1 ന് 1 ലേക്ക് പോകണം 2 2 ലേക്ക് പോകണം മൈനസ് 2 മൈനസ് 2 ലേക്ക് പോകണം മൈനസ് 1 മൈനസ് 1 ലേക്ക് പോകണം എന്നിങ്ങനെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിന് ഒരു യൂണീക് റിംഗ് ഹോമോമോർഫിസം ഉണ്ട് ഈ റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ പരിഗണിക്കുക ഏതൊരു ഐഡിയൽ കേർണലും ഇന്റീജറുകളുടെ ഒരു ഐഡിയൽ ആണെന്ന് നമുക്കറിയാം ഇന്റീജറുകളുടെ റിങ്ങിന്റെ ഏതൊരു ഐഡിയലും ചില നെഗറ്റീവ് ഇതര സംഖ്യകൾക്ക് n Z എന്ന രൂപത്തിലാണ് n ഒരു നെഗറ്റീവ് അല്ലാത്ത സംഖ്യയാണ് സവിശേഷതയെ നമ്മൾ നിർവചിക്കുന്നു ഇത് ഫീൽഡ് തിയറിയിലെ ഒരു റിങിന്റെ ഒരു പ്രധാന പദമാണ് R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് സാധാരണ ചാർ ബ്രാക്കറ്റ് Rഅത് n ആണ് അത്രമാത്രം R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജനറേറ്ററിന് തുല്യമാണ് Z മുതൽ R വരെയുള്ള യൂണീക് മാപ്പിന്റെ കേർണലിന്റെ നെഗറ്റീവ് അല്ലാത്ത ജനറേറ്റർ ഉദാഹരണമായി Z ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇസഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് വാസ്തവത്തിൽ Z മുതൽ Z വരെ ഒരു യൂണീക് മാപ്പ് ഉണ്ടെന്ന് ഓർമ്മിക്കുക അതാണ് ഐഡന്റിറ്റി മാപ്പ് ഐഡന്റിറ്റി റിംഗ് ഹോമോമോർഫിസം അതിന്റെ കേർണൽ 0 ഐഡിയൽ ആണ് കാരണം ഇത് ഒരു അഡ്ജെക്റ്റീവ് മാപ്പ് ആയതിനാൽ ജനറേറ്റർ 0 ആണ് Z ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആണ് ഇത് യഥാർത്ഥത്തിൽ ഏത് വേരിയബിളുകളിലുമുള്ള ZX പോളിനോമിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് Q ന്റെയും R ന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇത് തന്നെ ആണ് സി യുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ റിങ്ങുകളെല്ലാം ഇന്റീജറുകളുടെ റിങ് മുതൽ ഈ റിങ്ങുകൾ വരെ യൂണീക് മാപ്പ് ഉണ്ട്അത് ഇൻജെക്ടിവ് ആണ് അതിനർത്ഥം ക്യാരക്ടറിസ്റ്റിക്സ് 0 കേർണലിന്റെ ജനറേറ്റർ 0 ആണ് അതുപോലെക്യാരക്ടറിസ്റ്റിക്സ് ഇത് ഇവിടെ പറഞ്ഞു നമുക്കറിയാം എന്നാൽ R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഞാൻ ഇത് മാറ്റിവെക്കും എനിക്ക് ഇത് ഊഹിക്കാൻ കഴിയും R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് n ആണെങ്കിൽ R ലെ പോളിനോമിയൽ റിങ്ങിന്റെ സ്വഭാവവും ഇത് ആയിരിക്കും ഇത് mr ആണെന്ന് പറയട്ടെ മറ്റ് ചില വേരിയബിളുകളുടെ എണ്ണം X n അതും n ആണ് കാരണം ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള യൂണീക് റിംഗ് ഹോമോമോർഫിസം ഇൻജെക്ടിവ് ആണ് പോളിനോമിയലിൽ R ഉൾപ്പെടുത്തുന്നത് ഇൻജെക്ടിവ് ആണ് ഇസഡ് മുതൽ പോളിനോമിയൽ റിംഗ് വരെയുള്ള യൂണീക് റിംഗ് ഹോമോമോർഫിസം എന്നത് ഇസഡ് മുതൽ ആർ വരെയുള്ള യൂണീക് റിംഗ് ഹോമോമോർഫിസത്തിന്റെ ഘടനയാണ് തുടർന്ന് ഉൾപ്പെടുത്തലിന് ശേഷം1 1 ലേക്ക് പോകേണ്ടതുണ്ട് ഇസഡിൽ നിന്ന് പോളിനോമിയൽ റിംഗിലേക്കുള്ള ഒരേയൊരു മാപ്പ് ഇതാണ് ഇത് ഈ രണ്ടിന്റെയും ഘടനയായിരിക്കണം കാരണം അത് ഇസഡ് മുതൽ അതിലേക്കുള്ള മാപ്പ് ആണ് ഇത് യൂണീക് മാപ്പ് ആണ് നിങ്ങൾക്ക് ഈ യൂണീക് മാപ്പ് ലഭിച്ചുകഴിഞ്ഞാൽ R ടു R അഡ്ജോയിന്റ് X 1 മുതൽ X n വരെ ഇൻജെക്ടിവ് ആണ് കേർണലുകൾ സമാനമാണ് Z മുതൽ പോളിനോമിയൽ റിംഗ് വരെയുള്ള മാപ്പിന്റെ കേർണൽ Z മുതൽ R വരെയുള്ള മാപ്പിന്റെ കേർണലിന് തുല്യമാണ് കാരണം ആ കോമ്പോസിഷന് കീഴിൽ എന്തെങ്കിലും 0 ലേക്ക് പോയാൽ അത് ആദ്യത്തെ മാപ്പിൽ തന്നെ 0 ലേക്ക് പോകണം കാരണം രണ്ടാമത്തെ മാപ്പ് ഇൻജെക്റ്റീവ് ആണ് നിങ്ങൾ കുറച്ച് കൂടുതൽ വേരിയബിളുകൾ ചേർത്താൽ ക്യാരക്ടറിസ്റ്റിക്സ് മാറില്ലഅല്ലെങ്കിൽ പൊതുവായി R ലെ ഈ തത്വം പറയുന്നത് R എന്നത് എസ് ന്റെ സബ് റിങ് ആണെന്നാണ് R എന്നത് R പ്രൈമിന്റെ സബ് റിങ് ആണെന്ന് പറയട്ടെ R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് R പ്രൈമിന്റെ സ്വഭാവത്തിന് തുല്യമാണ് കാരണം Z മുതൽ R വരെ ഒരു യൂണീക് മാപ്പ് ഉണ്ട് Z മുതൽ R പ്രൈം വരെ ഒരു യൂണീക് മാപ്പ് ഉണ്ട് അത് Z മുതൽ R വരെയുള്ള മാപ്പിന്റെ ഘടനയും R ഉം R പ്രൈം വരെയുള്ള മാപ്പിന്റെ ഘടനയും ഉൾപ്പെടുത്തണം ഇവ എളുപ്പമുള്ള നിരീക്ഷണങ്ങളാണ് കൂടാതെ Z മോഡ് n Z ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് n ആണ് കാരണം Z മോഡ് Z മുതൽ Z മോഡ് n Z വരെയുള്ള യൂണീക് മാപ്പിന്റെ കേർണൽ n Z ആണ് കാരണം Z മുതൽ Z മോഡ് n Z വരെയുള്ള യൂണീക് മാപ്പിന് കേർണൽ n Z ഉണ്ട് അതിനാൽ Z മോഡ് n Z ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് n ആണ് നെഗറ്റീവ് അല്ലാത്ത ഓരോ nസംഖ്യയ്ക്കും n ഗുണങ്ങളുടെ ഒരു റിങ് നിലവിലുണ്ട് ഇത് വളരെ എളുപ്പമുള്ള ഒരു നിരീക്ഷണമാണ് കാരണം നിങ്ങൾക്ക് Z മോഡ് n Z എളുപ്പം ചെയ്യാം നമ്മൾ ഇതുവരെ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ പ്രോബ്ലം R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആണ് അല്ലെങ്കിൽ R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പ്രൈം സംഖ്യയാണെന്ന് കാണിക്കാൻ ഞാൻ ചോദിക്കും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലായ്പ്പോഴും നെഗറ്റീവ് അല്ലാത്ത ഒരു സംഖ്യയാണെന്ന് ഓർമ്മിക്കുക ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിനായി ഇത് ആർബിട്രറി നെഗറ്റീവ് ഇതര സംഖ്യയായിരിക്കരുത് അത് ഒന്നുകിൽ ഒരു പ്രൈം നമ്പറായിരിക്കണം അല്ലെങ്കിൽ അത് 0 ആയിരിക്കണം 0 ഉം അനുവദനീയമാണ് അതിന്റെ കാരണം ആണ് ഉത്തരം യൂണീക് മാപ്പ് അല്ലെങ്കിൽ Z മുതൽ R വരെയുള്ള യൂണീക് റിംഗ് ഹോമോമോർഫിസം പരിഗണിക്കുക ഈ ഫൈയുടെ കേർണൽ n Z ആയിരിക്കട്ടെ ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ ഐസോമോർഫിസം പ്രമേയത്തിലൂടെ നമുക്ക് ഒരു ഇൻജെക്ടിവ് മാപ്പ് ഉണ്ട് ഫൈ Z മോഡ് n Z മുതൽ R വരെ എന്ന് ഞാൻ സൂചിപ്പിക്കും ഇതൊരു ഇൻജെക്റ്റീവ് മാപ്പ് ആണ് R ന്റെ സബ് റിങിന്റെ ഐസോമോർഫിക് ആണ് Z മോഡ് n Z ഇപ്പോൾ R എന്നത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയതിനാൽഞാൻ ഇത് ഇതുപോലെ ചെറുതാക്കും R ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയതിനാൽ Z മോഡ് n Z നമുക്ക് നന്നായി അറിയാം നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്റഗ്രൽ ഡൊമെയ്ൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സബ് റിംഗ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ കൂടിയാണ് അത് കാണിക്കാൻ വളരെ എളുപ്പമാണ് എന്താണ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ പൂജ്യമല്ലാത്ത രണ്ട് കാര്യങ്ങളുടെ പ്രോഡക്ട് പൂജ്യമല്ലാത്തതാണ് പക്ഷേ R എന്നത് സബ് റിങ് ആണെങ്കിൽ Z മോഡ് n Z R ന്റെ സബ് റിങ് ആണെങ്കിൽ നിങ്ങൾ Z മോഡ് n Z ൽ രണ്ട് കാര്യങ്ങൾ എടുക്കുന്നു അവ R നുള്ളിലും ഉണ്ട് അവിടെ രണ്ടും പൂജ്യമല്ലായെങ്കിൽ ഇവയുടെ പ്രോഡക്ട് R ൽ പൂജ്യമല്ലാത്തതാണ് ഇത് Z മോഡ് n Z ലും പൂജ്യമല്ലാത്തതാണ് കാരണം ഇത് ഒരു സബ് റിങ് ആണ് എന്നാൽ Z മോഡ് n Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇത് സൂചിപ്പിക്കുന്നത് n 0 അല്ലെങ്കിൽ n പ്രൈം ആണെന്നാണ് ഇന്റഗ്രൽ ഡൊമെയ്നുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചർച്ച ചെയ്ത കാര്യമാണിത് n 0 അല്ലെങ്കിൽ n ഒരു പ്രൈം നമ്പറാണെങ്കിൽ മാത്രമേ Z മോഡ് n Z എന്ന കോഷ്യന്റ് റിങ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആകൂ ഉദാഹരണത്തിന് Z മോഡ് 4 Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല കാരണം 4 പ്രൈം അല്ല 4 0 അല്ല അവിടെ നിങ്ങൾക്ക് 2 ബാർ ടൈംസ് 2 ബാർഅത് 0 ലഭിക്കും നമ്മൾ ഇത് മുമ്പ് ചെയ്തു ഞാൻ ഇത് വീണ്ടും ചെയ്യില്ല പക്ഷേ ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 അല്ലെങ്കിൽ പ്രൈം ആണെന്ന് കാണിക്കുന്നു ഇപ്പോൾ മറുവശത്ത് ഇത് ശരിയായി പരിഹരിക്കുന്നു പക്ഷേ ഇതിന്റെ വിപരീതം ശരിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് പ്രൈം ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആണെങ്കിൽ അത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയിരിക്കേണ്ടതില്ല ഉദാഹരണത്തിന് നിങ്ങൾ R നെ ZXY ആയി കണക്കാക്കുന്നു മോഡുലസ് പോളിനോമിയൽ X Y എന്ന് പറയാം R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആണ് ഇത് നിങ്ങൾ ചെയ്യുക Z എന്നത് ഇതിന്റെ ഒരു സബ് റിങ് ആണ് കാരണം കോൺസ്റ്റന്റ്സിനെ ZXY യുടെ സബ് റിങ് ആയി കണക്കാക്കാം തുടർന്ന് നിങ്ങൾ X Y യെ മാറ്റുക നിങ്ങൾ ഒരു ഇന്റീജറിനെയും മാറ്റുന്നില്ല Z എന്നത് R ന്റെ ഒരു സബ് റിങ് ആയി തുടരുന്നു പക്ഷേ R തീർച്ചയായും ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണോ അല്ല R ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല കാരണം X ബാർ Y ബാർ എന്നിവ പൂജ്യമല്ല പക്ഷേ X ബാർ Y ബാർ 0 ആണ് നമ്മൾ XY യെ മാറ്റി എക്സ് ബാർ Y ബാർ 0 ആണ് അതുപോലെ നിങ്ങൾ R പ്രൈം Z മോഡ് 2 Z ആയി എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ Z മോഡ് 11 ZX മോഡ് എക്സ് സ്ക്വയർ R പ്രൈമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് യഥാർത്ഥത്തിൽ 11 ആണ് ഇത് ഒരു അഭ്യാസം കൂടിയാണ് ഇസഡ് മോഡ് 11 ഇസെഡ് ഇതിനുള്ളിൽ ഒരു സബ് റിംഗായി ഇരിക്കുന്നു എന്നാൽ അതേ കാരണത്താൽ ആർ പ്രൈം ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല കാരണം എക്സ് ബാർ പൂജ്യമല്ല പക്ഷേ എക്സ് ബാർ സ്ക്വയേർഡ് 0 ആണ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലായ്പ്പോഴും 0 അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പറാണ് എന്നാൽ ഒരു റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പറാണെങ്കിൽ റിംഗ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെന്ന് അർത്ഥമാക്കുന്നില്ല അടുത്ത പ്രോബ്ലെത്തിലേക്കു പോകുന്നതിനുമുമ്പ് ഒരു പരാമർശം നടത്തട്ടെ അടിസ്ഥാനപരമായി R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് n ആണെങ്കിൽ നിങ്ങൾ 1 R എടുത്ത് ആഡ് ചെയ്യുക n 0 അല്ലെന്ന് കരുതുക R ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഇന്റീജർ n ആണ് 0 അല്ല എന്ന് കരുതുക എന്നിട്ട് ആഡ് n 1 n ടൈംസ് നിങ്ങൾക്ക് 0 കിട്ടും അതിനർത്ഥം നിങ്ങൾ Z മോഡ് n Z എന്ന അനുമാനം ഉപയോഗിച്ചാൽ അതിന്റെ ഉള്ളിലെ R ന്റെ ഒരു സബ് റിങ് ആണിത് യഥാർത്ഥത്തിൽ ഞാൻ ഇത് ചെയ്യട്ടെ ഈ Z മുതൽ R വരെ അവിടെ ഒരു മാപ്പ് ഉണ്ട് കേർണൽ n ആണ് അതിനർത്ഥം n കേർണലിൽ അടങ്ങിയിരിക്കുന്നു ഫൈ ഓഫ് n 0 ആണ് എന്നാൽ ഫൈ ഓഫ് n എന്താണ് ഫൈ ഓഫ് n 1 R പ്ലസ് 1 R പ്ലസ് 1 R ആണ് അത് 0 ആണ് ഇത് ഒരു കാരണമാണ് 1 പ്ലസ് 1 പ്ലസ് 1ആയതു കൊണ്ടല്ല m ന്റെ വാല്യൂ n നേക്കാൾ കുറവാണെങ്കിൽ ഇത് 0 അല്ല n ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് സംഖ്യയാണ് അതായത് 1 ടൈംസ് 1 ടൈംസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എൻ ടൈംസ് 0 ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കില്ല മറുവശത്ത് ക്യാരക്ടറിസ്റ്റിക്സ് 0 1 പ്ലസ് 1 പ്ലസ് 1 ആണെങ്കിൽ എത്ര ടൈംസ് വേണമെങ്കിലും 0 അല്ല ഒരിക്കലും 0 ശരിയല്ല കാരണം ഈ സാഹചര്യത്തിൽ നിന്നുള്ള മാപ്പ് Z മുതൽ R വരെയുള്ള മാപ്പ് നിർവചനം അനുസരിച്ച് ഇൻജെക്ടിവ് ആണ് കാരണം ക്യാരക്ടറിസ്റ്റിക്സ് 0 ആണെങ്കിൽ കേർണൽ 0 ആണ് അതിനർത്ഥം ഇത് ഒരു ഇൻജെക്റ്റീവ് മാപ്പ് ആണ് നിങ്ങൾ ഫൈ ഓഫ് n എടുക്കുമ്പോൾ അത് പൂജ്യമല്ല ഏത് സംഖ്യയുടെയും ഫൈ പൂജ്യമല്ല അതിനർത്ഥം 1 പ്ലസ് 1 പ്ലസ് 1 ഏത്ര ടൈംസ് ചെയ്താലും 0 അല്ല അത് ഒരിക്കലും 0 ആയിരിക്കില്ല ഒരു റിങ്ങിന്റെ സ്വഭാവത്തെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗ്ഗമുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ ചെയ്യട്ടെ ഇത് നിങ്ങൾ മുമ്പ് പഠിച്ച ഗ്രൂപ്പ് സിദ്ധാന്തവും റിംഗ് തിയറിയും സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ആദ്യമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു പക്ഷേ ഇത് ശ്രദ്ധാപൂർവ്വം ചെയ്യാം നമുക്ക് Z മോഡ് n Z അഡിറ്റീവ് ഗ്രൂപ്പായി പരിഗണിക്കാം അതിനാൽ തീർച്ചയായും Z മോഡ് n Z ഉം ഒരു റിങ്ങാണ് അതിനർത്ഥം നമ്മൾ അഡിറ്റീവ് ഗ്രൂപ്പ് ഘടന മാത്രമാണ് പരിഗണിക്കുന്നത് നെഗറ്റീവ് അല്ലാത്ത ഏതൊരു സംഖ്യയും അല്ലെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് സംഖ്യ പരിഗണിക്കുക ഒരു നെഗറ്റീവ് അല്ലാത്ത സംഖ്യ n എടുക്കുക നമ്മൾ അഡിറ്റീവ് ഗ്രൂപ്പ് ഘടന മാത്രമാണ് പരിഗണിക്കുന്നത് ഇപ്പോൾ നമ്മൾ Z മോഡ് n Z ന്റെ അഡിറ്റീവ് ഗ്രൂപ്പ് ഘടന മാത്രമേ പരിഗണിക്കുകയുള്ളൂ നമുക്ക് ഇത് എടുക്കാം ഇനിപ്പറയുന്ന ഒബ്ജക്റ്റിൽ എനിക്ക് താൽപ്പര്യമുണ്ട് ഇതിനെ ഇപ്പോൾ എൻഡോമോർഫിസം സെറ്റ് എന്ന് വിളിക്കുന്നു ഇവ G മുതൽ G വരെയുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളാണ് ജി യുടെ അവസാനം ഇത് സൂചിപ്പിക്കാം ഇതാണ് നിർവചനം അനുസരിച്ച് എല്ലാ ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളും ഞാൻ വീണ്ടും ഊന്നിപ്പറയട്ടെ ഫൈ എന്നത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം മാത്രമാണ് Z മോഡ് n Z ഉം ഒരു റിങ് ആണ് പക്ഷേ ഞാൻ റിംഗ് ഹോമോമോർഫിസങ്ങളിലേക്ക് നോക്കുന്നില്ല അതിനർത്ഥം 1 എന്നതിലേക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നമുക്ക് ധാരാളം പുതിയ ഒബ്ജക്റ്റുകൾ ലഭിക്കുന്നു കാരണം നിങ്ങൾ റിംഗ് ഹോമോമോർഫിസത്തെ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ കൃത്യമായി 1മാത്രമേ ഉള്ളൂ കാരണം 1ന് 1 ലേക്ക് പോകേണ്ടതുണ്ട് റിംഗ് ഹോമോമോർഫിസങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഘടകം മാത്രമേയുള്ളൂ ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ സെറ്റ് മാത്രം പരിഗണിക്കുന്നു അതിനാൽ അവിടെ കൂടുതൽ ഘടകങ്ങളുണ്ട് ആദ്യം കാണിക്കുക പ്രശ്നത്തിന്റെ ആദ്യ ഭാഗം എൻഡ് ജി യഥാർത്ഥത്തിൽ ഒരു റിംഗ് ആണെന്ന് കാണിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം വളരെ എളുപ്പമാണ് ഞാൻ എല്ലാ വിശദാംശങ്ങളും ചെയ്യില്ല കാരണം എനിക്ക് മറ്റ് ചില പ്രോബ്ലെംസും ചെയ്യാനുണ്ട് ഇത് ശരിയാക്കി യഥാർത്ഥ സ്ഥിരീകരണങ്ങൾ ഈ ഭാഗം നിങ്ങൾക്ക് വിടാം എൻഡ് ജി ഒരു റിംഗ് ആണെന്ന് കാണിക്കുക നമ്മൾ എന്തുചെയ്യും ആദ്യം 0 അവിടെയുണ്ട് 0 എന്താണ് അത് അങ്ങനെ തന്നെ ഞാൻ 0 കൊണ്ട് സൂചിപ്പിക്കും ഇത് ജി മുതൽ ജി വരെയുള്ള എല്ലാ എലെമെന്റ്സും 0 ആക്കുന്ന ഒരു മാപ്പ് ആണ് ജി ഒരു അഡിറ്റീവ് ഗ്രൂപ്പാണെന്ന് ഓർമ്മിക്കുക ഇതിന് ഒരു അഡിറ്റീവായ ഐഡന്റിറ്റി ഉണ്ട് അതിനെ നമ്മൾ സാധാരണയായി 0 എന്ന് വിളിക്കുന്നു എല്ലാം 0 1 ലേക്ക് അയയ്ക്കുന്നുഎൻഡ് ജി ഐഡന്റിറ്റി മാപ്പ് ആണെന്ന് ക്ലെയിം ചെയ്യുന്നു സങ്കലനവും ഗുണനവും നമ്മൾ യഥാർത്ഥത്തിൽ നിർവചിച്ചുകഴിഞ്ഞാൽ ഇത് അർത്ഥമാക്കും ഒപ്പം ഐഡന്റിറ്റി മാപ്പ് അതായത് ഇത് ചെറിയ x നെ ചെറിയ x ലേക്ക് അയയ്ക്കുന്നു അഡീഷൻ എന്താണ് എൻഡ് ജിയിൽ നിങ്ങൾ ഫൈ1 ഫൈ 2 എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് പറയേണ്ടതായിരുന്നു ഫൈ 1 പ്ലസ് ഫൈ 2 എൻഡ് ജി യുടെ മറ്റൊരു ഘടകമായിരിക്കണം അതിനർത്ഥം അത് ജി മുതൽ ജി വരെയുള്ള ഒരു ഹോമോമോർഫിസമായിരിക്കണം അത് എന്താണ് ഫൈ 1 പ്ലസ് ഫൈ 2 ഓഫ് X ഞാൻ ലളിതമായി നിർവചിക്കും ഞാൻ എൻഡ് G ചേർക്കുംഫൈ 1 പ്ലസ് ഫൈ2 ഓഫ് x ഫൈ 1 x പ്ലസ് ഫൈ 2 x ആയിരിക്കും എൻഡ് ജിയിലെ സങ്കലനമാണിത് എന്താണ് ഗുണനം ഗുണനം എന്നത് കേവലം കോമ്പോസിഷൻ ആണ് രണ്ട് ഫംഗ്ഷനുകളുടെ ഘടനയാണ് കാരണം ഫൈ 1 ഫൈ 2 രണ്ടും G മുതൽ G വരെയുള്ള ഫങ്ഷൻസ് ആണ് ഫൈ 1 ജിയിൽ നിന്ന് ജിയിലേക്കും ഫി 2 ജിയിൽ നിന്ന് ജിയിലേക്കും ആണ് ഇവ യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളാണ് ഫൈ 1 ഫൈ 2 ഓഫ് X ഫൈ 1 ഓഫ് ഫൈ 2 ഓഫ് x ആയി ഞാൻ നിർവചിക്കുന്നു ഇത് എൻഡ് G ലെ ഗുണനമാണ് എൻഡ് ജി ഒരു റിങ്ങാണെന്നു കാണിക്കുന്നതിന് എന്താണ് കൂട്ടിച്ചേർക്കൽ എന്താണ് ഗുണനം എന്ന് പറയേണ്ടതുണ്ട് ടാർഗെറ്റ് ഗ്രൂപ്പിൽ ചേർക്കുക എന്നതാണ് സങ്കലനം ഗുണനം കോമ്പോസിഷനായി നിർവചിക്കപ്പെടുന്നു ഈ പ്രവർത്തനങ്ങൾ ആണ് നിങ്ങൾക്ക് പരിശോധിക്കേണ്ടത് എൻഡ് ജി യഥാർത്ഥത്തിൽ ഒരു റിംഗ് ആണ് വാസ്തവത്തിൽ ഇത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗാണ് നമ്മുടെ എല്ലാ റിങ്ങുകളും യൂണിറ്റി ആയ കമ്മ്യൂട്ടേറ്റീവ് റിങ് ആയിരിക്കണമെന്ന് നമുക്കറിയാം ഇതിന് ഒരു യൂണിറ്റി ഉണ്ടെന്നു നമുക്ക് അറിയാം കാരണം 1 എന്നത് ഐഡന്റിറ്റി മാപ്പ് ആയി നിർവചിക്കപ്പെടുന്നു നിങ്ങൾ ഏതെങ്കിലും എൻഡോമോർഫിസത്തെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ അതായത് ഐഡന്റിറ്റി മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും എൻഡോമോർഫിസം കംപോസ് ചെയ്താൽ നിങ്ങൾക്ക് ആ എൻഡോമോർഫിസം തിരികെ ലഭിക്കും 1 എന്നത് ഐഡന്റിറ്റിയാണ് ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ് ഇതാണ് തന്ത്രപരമായ ഭാഗം പൊതുവായി കോമ്പോസിഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല നിങ്ങൾക്ക് എഫ് ജി എന്നീ രണ്ട് ഫംഗ്ഷനുകൾ കംപോസ് ചെയ്യാൻ കഴിയും കൂടാതെ എഫ് സർക്കിൾ ജി അല്ലെങ്കിൽ ജി സർക്കിൾ എഫ് പൊതുവേ വ്യത്യസ്തമാണ് എന്നാൽ ഈ ഉദാഹരണത്തിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ് കമ്മ്യൂട്ടേറ്റീവ് എന്നത് നിങ്ങൾ പരിശോധിക്കേണ്ട ഒന്നാണ് മറ്റ് കണ്ടീഷൻസ് നേരിട്ടുള്ളതാണ് കാരണം ഫൈ 1 ഉം ഫൈ 2 ഉം ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളാണെങ്കിൽ അവയുടെ ആകെത്തുക ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് ഫൈ 1 ഫൈ2 ഗ്രൂപ്പ് ഹോമോമോർഫിസമാണെങ്കിൽ അവയുടെ കോമ്പോസിഷനും ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് ഇവയെല്ലാം പരിശോധിക്കേണ്ട ഗ്രൂപ്പ് സിദ്ധാന്തങ്ങളാണ് ഫൈ 1 പ്ലസ് 0 ഈക്വൽ റ്റു ഫൈ 1 ഫൈ 1 സർക്കിൾ ഫൈ 2 ഈക്വൽ റ്റു ഫൈ 2 സർക്കിൾ ഫൈ 1 ഫൈ 1 സർക്കിൾ 1 ഫൈ 1 ആണെന്ന് പരിശോധിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഡിസ്ട്രിബൂട്ടീവ് പ്രോപ്പർട്ടി പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവകൂടി പരിശോധിക്കേണ്ടതുണ്ട് അഡീഷനിൽ ഇവ കൂടാതെ ഇത് ഒരു ഗ്രൂപ്പ് ആണ്കാരണം ഫൈ 1ന്റെ ഇൻവേഴ്സ് മൈനസ് ഫൈ 1 ഫൈ മൈനസ് ഫൈ 1 x 2 മൈനസ് ഫൈx മൈനസ് ഫൈ ഫൈ1 ഓഫ് എക്സ് അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എല്ലാത്തിനും ഒരു മൾട്ടിപ്ലിക്കേറ്റിവ് ഇൻവേഴ്സ് ഉണ്ടാകില്ല പക്ഷേ അത് നമുക്ക് ആവശ്യമില്ല ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് പരിശോധിക്കുക ഇത് പ്രോബ്ലം സോൾവിങ് വീഡിയോയാണെങ്കിലും ഞാൻ അത് ചെയ്യില്ല കാരണം ഇത് തികച്ചും എളുപ്പമാണ് രണ്ടാമത്തെ അഭ്യാസം ഇതാണ് ആദ്യ കേസിലൂടെ എൻഡ് ജി ഒരു റിങ് ആണെന്ന് നമുക്കറിയാം അത് ഏത് തരം റിങ്ങാണ് Z എൻഡ് G റിങ്ങുകൾ Z മോഡ് n Z ന് ഐസോമോർഫിക് ആണെന്ന് നമ്മൾ കാണിക്കുന്നു അതിനർത്ഥം ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ട് റിംഗ് ഐസോമോർഫിസം ഞാൻ ഡിറക്ഷൻ മാറ്റാം പ്രശ്നമില്ല Zമോഡ് n Z മുതൽ എൻഡ് G വരെ ഒരു റിംഗ് ഐസോമോർഫിസം ഉണ്ട് അതിനർത്ഥം അങ്ങനെ എടുക്കുന്നു ഇതാണ് ഇതിന്റെ തന്ത്രപരമായ ഭാഗം ഞാൻ ആരംഭിച്ചത് ഇസഡ് മോഡ് എൻ ഇസഡിനെ ഒരു ഗ്രൂപ്പായി മാത്രം കണക്കാക്കുന്നു ഒരു റിങ് ആയിട്ടല്ല എല്ലാ ഹോമോമോർഫിസങ്ങളുടെയും ജി മുതൽ ജി വരെയുള്ള എല്ലാ ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളുടെയും സെറ്റ് ഞാൻ കണക്കാക്കുന്നു അത് യഥാർത്ഥത്തിൽ റിംഗ് ഘടനയെ പിന്തുടരുന്നു കൂടാതെ ഒരു റിങ് എന്ന നിലയിൽ ഇത് ഇസഡ് മോഡ് എൻ ഇസഡ് ലേക്ക് ഐസോമോർഫിക് ആണ് ഇപ്പോൾ Z മോഡ് n Z ഒരു റിംഗ് ആയി കണക്കാക്കുന്നു നിങ്ങൾ ഇവിടെ വിവിധ നൊട്ടേഷനുകളുടെ ട്രാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ Z മോഡ് n Z നിരവധി റോളുകളിൽ പ്രത്യക്ഷപ്പെടുന്നു ആദ്യം ഒരു ഗ്രൂപ്പായി ഇപ്പോൾ ഒരു റിങ് ആയി ഞാൻ ഒരു ഐസോമോർഫിസത്തെ നിർവചിക്കും ഒരു മാപ്പ് നിർവചിച്ച് അത് ഐസോമോർഫിസസമാണെന്ന് കാണിക്കാൻ പോകുന്നു Z മോഡ് nZ ലെ എ ക്ക് G മുതൽ G വരെയുള്ള ഫൈ a മാപ്പ് പരിഗണിക്കുക ഗ്രൂപ്പ് ഹോമോമോർഫിസം പരിഗണിക്കുക a നിർവചിക്കുന്ന G മുതൽ G വരെയുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസം പരിഗണിക്കുക ഇത് എന്താണ് ഇത് ഫൈ a ഓഫ് x ax ആണ് ഇപ്പോൾ ax എന്താണെന്ന് നോക്കാം Z മോഡ് n Z ഓർക്കുക Z മോഡ് n Z ന്റെ ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇതാണ് നമ്മൾ Z മോഡ് n Z ൽ ഗുണനം ചെയ്യുന്നു കാരണം അത് യഥാർത്ഥത്തിൽ ഗ്രൂപ്പാണെങ്കിലും അത് ഇന്റീജറുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ സങ്കലനം മാത്രമാണ് ഞാൻ ഉദാഹരണമായി എഴുതുമ്പോൾ നിങ്ങൾ Z മോഡ് 6 Z എടുത്താൽ അത് 0 ബാർ 1 ബാർ മുതൽ 5 ബാർ വരെ ആയിരിക്കും നമുക്ക് a 3 ബാർ x 4 ബാർ എന്ന് പറയാം a ടൈംസ് x എന്താണ് ഇത് 3 ബാർ ടൈംസ് 4 ബാർ ആണ് ഇത് ശരിക്കും 4 ബാർ പ്ലസ് 4 ബാർ പ്ലസ് 4 ബാർ ആണ് കാരണം 3 ബാർ ഈ റിംഗിലെ നമ്പർ 3 ആയി വർത്തിക്കുന്നു അതിനാൽ 3 കൊണ്ട് ഗുണിച്ചാൽ അത് 4 ബാർ 3 ടൈംസ് അത് തന്നെ ആണ് ഇത് 12 ബാർ ആണ് ഇത് യഥാർത്ഥത്തിൽ 0 ബാർ ആണ് ഇത് ഒരു ഉദാഹരണമാണ് അതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും എ ടൈംസ് x എന്നത് ശരിക്കും x പ്ലസ് x പ്ലസ് xa ടൈംസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ aജിയുടെ ഒരു എലെമെന്റ് ആണ് അതിനാൽ ഇത് ഒരു പൂർണ്ണസംഖ്യയല്ല പക്ഷേ ഇതിന് പൂർണ്ണസംഖ്യകളുടെ റിങ്ങിൽ ഒരു പ്രതിനിധിയുണ്ട് ഇപ്പോൾ നിങ്ങൾ മറ്റൊരു പ്രതിനിധി എടുക്കുകയാണെങ്കിൽ ax നു മാറ്റമില്ല ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് 3 ബാർ എടുക്കാം എന്നാൽ 3 ബാർ 9 ബാർ ആണ് 3 ബാർ 9 ബാറിന് തുല്യമാണ് എനിക്ക് 9 ടൈംസ് 4 ബാർ ചെയ്യാൻ കഴിയും അത് 36 ബാർ ആണ് അത് 0 ബാർ ആണ് അവസാനം നമ്മൾ മോഡുലസ് n ലേക്ക് പോകുന്നതിനാൽ ഞാൻ ഇവിടെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സംഖ്യ അപ്രസക്തമാണ് എനിക്ക് ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഏത് സംഖ്യയും തിരഞ്ഞെടുത്ത് അത് കൊണ്ട് ഗുണിക്കാം വാസ്തവത്തിൽ ഞാൻ അത് അവകാശപ്പെടുന്നുഇവിടെ എഴുതാം പക്ഷേ ഇത് വാസ്തവത്തിൽ ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഫൈ a ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ്ഇതാണ് എന്റെ ക്ലെയിം ഇത് പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ് കാരണം ഇത് ഫൈ a ഓഫ് x പ്ലസ് y ഈക്വൽ റ്റു a ടൈംസ് x പ്ലസ് y അത് a x പ്ലസ് a y ആണ് ഫൈ a ഓഫ്x പ്ലസ് ഫൈ a ഓഫ് y അതുപോലെ ഫൈ aഓഫ് 0 ഈക്വൽറ്റു a ടൈംസ് 0 അത് 0 ആണ് ഇതുകൊണ്ടാണ് ഇത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആകുന്നത് അതിനർത്ഥം ഫൈ എ എൻഡ് ജിയിലാണ് എൻഡ് ജി യ്ക്കുള്ള നമ്മുടെ നൊട്ടേഷൻ എന്താണെന്ന് ഓർമ്മിക്കുക ഇവ ജി മുതൽ ജി വരെയുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളാണ് ഫൈ എ അത്തരത്തിലുള്ള ഒന്നാണ് ഇത് ഒരു എൻഡ് ജി ആണ് ഇപ്പോൾ Z മോഡ് n Z മുതൽ എൻഡ് G വരെയുള്ള മാപ്പ് ക്യാപിറ്റൽ ഫൈ നിർവചിക്കുക മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഒരു ആർബിട്രറി എലെമെന്റ് എ ഉപയോഗിച്ച് ആരംഭിച്ചു എൻഡോമോർഫിസം ഫൈ സബ് a എന്ന് നിർവചിച്ചതും ഓർക്കുക ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ ഫൈയെ നിർവചിക്കുന്നു ക്യാപിറ്റൽ ഫൈ ഓഫ് എ എന്നാൽ ഫൈ എ ആണ് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഇതിനകം പരിശോധിച്ചുഅപ്പോൾ കണ്ടത് ഫൈ എ എൻഡ് ജിയിൽ എത്തുന്നു ക്യാപിറ്റൽ ഫൈ ഓഫ് എ എന്നത് സ്മാൾ ഫൈ സബ് a ആണ് ക്യാപിറ്റൽ ഫൈ ഒരു റിംഗ് ഹോമോമോർഫിസമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു ഇപ്പോൾ നമ്മൾ റിങ്ങുകളുടെയും റിംഗ് ഹോമോമോർഫിസത്തിന്റെയും മേഖലയിലാണ് ഇത് ഒരു റിംഗ് ഹോമോമോർഫിസമാണെന്ന് ഇപ്പോൾ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സ്മോൾ ഫൈ ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് ശരിയാണ് ഇപ്പോൾ ക്യാപിറ്റൽ ഫൈ ഒരു റിംഗ് ഹോമോമോർഫിസമാണ് പ്രത്യേകിച്ചും ഫൈ ഓഫ് 1 1 ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് എന്തുകൊണ്ട് ഫൈ ഓഫ് 1 എന്താണ് ഞാൻ ഇപ്പോൾ ഇത് ഫൈ ഓഫ് 1 എന്നാൽ സ്മോൾ ഫൈ സബ് 1 ആണെന്ന് തെളിയിക്കാം എന്താണ് സ്മോൾ ഫൈ സബ് 1 ജി മുതൽ ജി വരെയുള്ള ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ഇത് ഫൈ സബ് 1 ഓഫ് x1 ടൈംസ് x ആണ് അത് x ആണ് അതായത് ഫൈ സബ് 1 ഐഡന്റിറ്റി മാപ്പ് ആണ് അതിനാൽ ആവശ്യാനുസരണം എൻഡ് ജിയിലെ ഐഡന്റിറ്റി ഘടകമാണ് ഫൈ സബ് 1 അതിനാൽ ക്യാപിറ്റൽ ഫൈ ഓഫ് 1 ഈക്വൽ റ്റു 1 ആണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ 1 എഴുതുമ്പോൾ 1 ഇൻ Z മോഡ് n Z എന്ന് പ്രതിനിധീകരിക്കുന്നു വലതുവശത്തെ 1 ഐഡന്റിറ്റി എൻഡോമോർഫിസത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നമുക്ക് അത് പരിശോധിക്കാം എന്താണ് ഫൈ ഫൈ സബ് എ ക്ഷമിക്കണം ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ റ്റു ഫൈ ഓഫ് എ അങ്ങിനെ എടുക്കാം അതായത് ആദ്യ ഭാഗം ചെയ്തു അടുത്ത ഭാഗം അഡിറ്റീവ് ഹോമോമോർഫിസം ഘടന കാണിക്കുന്നുക്യാപിറ്റൽ ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ റ്റു ക്യാപിറ്റൽ ഫൈ ഓഫ് എ പ്ലസ് ക്യാപിറ്റൽ ഫൈ ഓഫ് ബി ആണ് ഇത് എന്താണ് ഈ രണ്ട് വശങ്ങളും നമുക്ക് പരിശോധിക്കാം ഇത് എന്തിന്റെ ഇക്വാലിറ്റി ആണ് എൻഡ് ജി യിലെ ഇക്വാലിറ്റി ആണ് അതിനർത്ഥം ഇത് മാപ്പുകളുടെ തുല്യതയാണ് അതിനാൽ ഇവ G യിലെ സമാന മാപ്പുകളാണോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഒരു x എടുക്കാം അതിനുമുമ്പ് ആദ്യം ഫൈ ഓഫ് എ പ്ലസ് ബി യുടെ നിർവചനം അനുസരിച്ച് എന്താണ് സ്മോൾ ഫൈ സബ് എ പ്ലസ് ബി എന്ന് ആദ്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് സ്മോൾ ഫൈ സബ് a ഉം ഇത് സ്മോൾ ഫൈ സബ് b ഉം ആണ് സ്മോൾ ഫൈ സബ് a പ്ലസ് b എന്നത് സ്മോൾ ഫൈ സബ് a പ്ലസ് സ്മോൾ ഫൈ സബ് b ക്കു തുല്യമാണോയെന്നു പരിശോധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് G യുടെ ആർബിട്രറി ഒരു ഘടകം എടുത്ത് ഇരുവശങ്ങളും കണക്കുകൂട്ടാം a ഫൈ ഓഫ് ഫൈ സബ് എ പ്ലസ് ബി ഫൈ ഓഫ് x എന്താണ് ഇത് എ പ്ലസ് ബി ടൈംസ് x ആണ് ഇത് ax ആണ് കാരണം എ ശരിക്കും ഒരു ഇന്റീജർ ആയി കണക്കാക്കപ്പെടുന്നുവെന്ന് ഓർക്കുക എന്നാൽ ax പ്ലസ് ബിഎക്സ് യഥാർത്ഥത്തിൽ ax പ്ലസ് bx ഫൈ ഓഫ് ax ഫൈ ഓഫ് bx ആണ് ഇത് ഒരു എൻഡ് ജി കൂട്ടിച്ചേർക്കലിന്റെ നിർവചനമനുസരിച്ച് ഇത് യഥാർത്ഥത്തിൽ ഫൈ സബ് a പ്ലസ് പ്ലസ് ഫൈ s സബ് b ഓഫ് x ആണ് കാരണം നിങ്ങൾ എൻഡോമോർഫിസങ്ങളിലേക്ക് ചേർക്കുമ്പോൾ ഇമേജ് എടുത്ത് ചേർക്കുക ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇത് പരിശോധിച്ച് ഇപ്പോൾ അവസാനമായിഫൈ ഓഫ് a b ഈക്വൽ റ്റു ഫൈ ഓഫ് a ടൈംസ് ഫൈ ഓഫ് b ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് എന്താണ് ഇതു ഫൈ ഓഫ് എ ആണ് സ്മോൾ ഫൈ സബ് ab ഇത് സ്മോൾ ഫൈ സബ് എ ഇത് സ്മോൾ ഫൈ സബ് ബി ആണ് എൻഡ് ജിയിലെ ഒരു പ്രോഡക്ട് എന്താണ് ഇത് യഥാർത്ഥത്തിൽ കോമ്പോസിഷൻ ആണ് ഇത് പരിശോധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ നിബന്ധന ഇതാണ് ഒരുപക്ഷേ ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇടാം ഇത് എഴുതാം രണ്ടാമത്തെ വ്യവസ്ഥ ഇതാണ് ആദ്യ വ്യവസ്ഥ ഇതാണ് ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം ഇത് ജി മുതൽ ജി വരെയുള്ള മാപ്പുകളുടെ തുല്യത കൂടിയാണ് നമുക്ക് ജി യിലെ x എന്ന ആർബിട്രറി ഒരു ഘടകം എടുക്കാം ഫൈ ab ഓഫ് X എന്താണ് നിർവചനം അനുസരിച്ച് ഇത് ab ടൈംസ് x ആണ് ഗുണനത്തിന്റെ അസ്സോസിയേറ്റിവിറ്റി കാരണം ഇത് എ ടൈംസ് ബി ഓഫ് x ആണ് എന്നാൽ ഇത് എ ടൈംസ് ഫൈ b ഓഫ് xആണ് ഇത് ഫൈ a ഫൈb ഓഫ് x ആണ് ഇത് നിർവചനം അനുസരിച്ച് ഫൈ എ യിൽ ഫൈ b ഓഫ് x കൂട്ടി ചേർത്തിരിക്കുന്നു എന്നാണ് ഇത് കൃത്യമായി ആവശ്യമായ ഈക്വാലിറ്റി ആണ് ഓരോ x ലും അത് ശരിയാണ് ഇതും ശരിയാണ് ക്യാപിറ്റൽ ഫൈ എന്നത് ഒരു റിംഗ് ഐസോമോർഫിസമാണ് സോറി അത് നല്ല റിംഗ് ഹോമോമോർഫിസം ആണ് ഒരു റിംഗ് ഐസോമോർഫിസമല്ല ഇപ്പോൾ ശേഷിക്കുന്ന കാര്യം അത് വാസ്തവത്തിൽ ഒരു റിംഗ് ഹോമോമോർഫിസമാണോയെന്ന് പരിശോധിക്കുക എന്നതാണ് ഇത് ഒരു ഐസോമോർഫിസം കൂടിയാണ് തന്നിരിക്കുന്ന റിംഗ് ഹോമോമോർഫിസം ഒരു ഐസോമോർഫിസം ആണെന്ന് നിങ്ങൾ എങ്ങനെ സ്ഥിരീകരിക്കും നമ്മൾ കാണിക്കേണ്ടത് അത് ബൈജക്ടീവ് ആണ് ക്യാപിറ്റൽ ഫി ബൈജക്ടീവ് ആണ് എന്നാണ് എന്നാൽ ഇത് എളുപ്പമാണ് കാരണം ഇത് ഒരു റിംഗ് ഹോമോമോർഫിസം കൂടിയാണ് ഇതിനകം ഒരു റിംഗ് ഹോമോമോർഫിസം ആണ് ഇത് ആദ്യം ഇൻജെക്ടിവ് ആണോയെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കും ക്യാപിറ്റൽ ഫൈ ഇൻജെക്റ്റീവ് ആണ് എന്തുകൊണ്ട് എന്താണ് കേർണൽ ക്യാപിറ്റൽ ഫൈയെ ഇസഡ് മോഡ് എൻ ഇസഡ് മുതൽ എൻഡ് ജി വരെയുള്ള ഒരു മാപ്പ് ആണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു a ഫൈ യുടെ കേർണലിലേതാണെന്ന് കരുതുക ഒരു റിംഗ് ഹോമോമോർഫിസം ഇൻജെക്ടിവ് ആണെന്ന് തെളിയിക്കാൻ ആ റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ 0 ആണെന്ന് കാണിച്ചാൽ മതിയാകും എ ക്യാപിറ്റൽ ഫൈയുടെ കേർണലിലാണെങ്കിൽ അതിനർത്ഥം ക്യാപിറ്റൽ ഫൈ എ 0 ആണ് അതിനർത്ഥം ഫൈ ഓഫ് a 0 ആണ് ഒരു ആശയം ജി മുതൽ ജി വരെയുള്ള മാപ്പാണ് അതിനാൽ ഫൈ സബ് a ഓഫ് 1 0 ആണ് അതായത് എ ടൈംസ്1 0 ആണ് അതിനർത്ഥം a 0 ആണ് അതിനാൽ ഫൈ ഇൻജെക്റ്റീവ് ആണ് ഇപ്പോൾ ഫൈ എന്നത് ഒരു ഇൻജെക്റ്റീവ് മാപ്പ് ആണ്ക്ഷമിക്കണം ഫൈ ഇൻജെക്റ്റീവ് ആണ് അതെന്താണ് ഫൈ ഇൻജെക്റ്റീവ് ആണെന്ന് നമ്മൾ കാണിച്ചു ഇപ്പോൾ നമ്മൾ എന്താണ് കാണിക്കേണ്ടത് ഫൈ സർജക്റ്റീവ് ആണ് അത് ബൈജക്ടീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത് ഇൻജെക്ടിവ് ആണെന്ന് നമ്മൾ കാണിച്ചു ഇനി അത് സർജെക്ടിവ് ആണെന്ന് കാണിക്കണം ഈ ഭാഗത്തിനായി നമുക്ക് ജി ഗ്രൂപ്പിന്റെ ആർബിട്രറി എൻഡോമോർഫിസം എടുക്കാം ഇത് ജി മുതൽ ജി വരെയുള്ള ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് ഞാൻ ക്ലെയിം എഴുതാം ഞാൻ ഇത് തെളിയിക്കില്ല ഞാൻ ക്ലെയിം എഴുതുന്നതിനുമുമ്പ് അങ്ങനെ കരുതുക എ ഫൈ ഓഫ് 1 ആയിരിക്കട്ടെ ജി മുതൽ ജി വരെയുള്ള ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് ഫൈ എന്ന് ഓർക്കുക അതിനാൽ ഞാൻ ഫൈ ഓഫ് 1 എ എന്ന് എടുക്കുന്നു അതിനാൽ നമുക്ക് എ 1 എടുക്കാം പോയിന്റ് ഇപ്പോൾ ഇതാണ് എ മുഴുവൻ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫൈയെ നിർണ്ണയിക്കുന്നു ക്ലെയിം യഥാർത്ഥത്തിൽ ഫൈ ഫൈ സബ് a ക്ക് തുല്യമാണ് അത് ക്യാപിറ്റൽ ഫൈ ഓഫ് a ആണ് കാരണം ഫൈ ഓഫ് x യഥാർത്ഥത്തിൽ എ ടൈംസ് ഫൈ 1 ആണ് ക്ഷമിക്കണം x ടൈംസ് ഫൈ 1 ഇത് ax ആണ് എന്നാൽ ഇത് ന്റെ ഫൈ a ഓഫ് x ന് തുല്യമാണ് അതിനാൽ മുഴുവൻ കാര്യങ്ങളും കാണിക്കുന്നത് ഫൈ ഓഫ് x x ടൈംസ് ഫൈ 1 ആണെന്നും എഴുതാംകാരണം x 1 പ്ലസ് 1 പ്ലസ് 1 x ടൈംസ് ആണ് ഫൈ ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമായതിനാൽ ഫൈ ഓഫ് x എന്നത് ഫൈ ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫൈ ഓഫ് 1 പ്ലസ് ഫൈ ഓഫ് 1 പ്ലസ് ഫൈ ഓഫ് 1 x ടൈംസ് ചെയ്യാൻ കഴിയും ഇതാണ് അത് ഈ ഭാഗം വ്യക്തമല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് ചിന്തിക്കുക അത് നിങ്ങൾക്ക് വ്യക്തമാകും ഫൈ ഒരു സർജക്റ്റീവ് മാപ്പ് ആണെന്നും ഇത് ഒരു ഇൻജെക്റ്റീവ് മാപ്പ് ആണെന്നും നമ്മൾ ഇവിടെ പരിശോധിച്ചതുപോലെ ഇത് ഒരു ഹോമോമോർഫിസമാണെന്നും ഇത് കാണിക്കുന്നു നിഗമനങ്ങൾ ഇതാണ് ഇവ ഒരു റിങ്ങുകളെ പോലെ ഐസോമോർഫിക് ആണ് ഇത് വളരെ നല്ലൊരു പ്രോബ്ലം ആണ് കാരണം ഇത് ഗ്രൂപ്പുകളെയും റിങ്ങുകളെയും കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതെല്ലാം ഇപ്പോൾ സംയോജിപ്പിക്കുകയും എല്ലാം ശരിയായ സ്ഥലത്ത് കാണാൻ ഇത് നിങ്ങളെ അനുവദിക്കുകായും ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധാപൂർവ്വം പിന്തുടരുകയും ഈ പ്രശ്ന പരിഹാരം മനസിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ റിംഗ് സിദ്ധാന്തം മനസിലാക്കാൻ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടുതൽ പ്രോബ്ലെംസ് ചെയ്യും